എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 ലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് വേരിയബിളുകളുടെ ഫംഗ്ഷനുകളുടെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് സംസാരിക്കും ഒരു ലിമിറ്റിന്റെ നിർവചനം നമ്മൾ ഇതിനകം കണ്ടു തീർച്ചയായും ലിമിറ്റിന്റെ ഡെൽറ്റ എപ്സിലോൺ നിർവചനം ഇത് ആ നിർവചനങ്ങളാൽ പ്രചോദിതമാണ് z f x y എന്ന ഫംഗ്ഷൻ ഒരു ഘട്ടത്തിൽ x0 y0 കണ്ടിന്യൂയിറ്റിയായി പറയപ്പെടുന്നു ഈ f x y x0 y0 ൽ നിർവചിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിമിറ്റ് ആ പോയിന്റിലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണ് ഈ മൂന്ന് നിബന്ധനകളും പാലിച്ചാൽ ഫംഗ്ഷൻ നിർവചിക്കപ്പെടുന്നു ഈ ലിമിറ്റ് നിലവിലുണ്ടെന്നും ലിമിറ്റ് 0 fx0 y0 എന്ന ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാണെന്നും തുടർന്ന് ഫംഗ്ഷൻ x0 y0 പോയിന്റിൽ കണ്ടിന്യൂവസാണെന്ന് നമ്മൾ വിളിക്കുന്നു D ഡൊമെയ്നിലെ ഓരോ ഘട്ടത്തിലും f x y ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂവസാണെങ്കിൽ ആ ഫംഗ്ഷൻ ആ ഡൊമെയ്നിൽ കണ്ടിന്യൂവസാണെന്ന് നമ്മൾ വിളിക്കുന്നു ഒടുവിൽ ഇവിടെ കണ്ടിന്യൂയിറ്റി അടിസ്ഥാനപരമായി ലിമിറ്റ് കണ്ടെത്തുന്നു എന്നിട്ട് ഈ ലിമിറ്റ് x0 y0 എന്നതിലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമായിരിക്കണമെന്ന് നിരീക്ഷിക്കുക ലിമിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡെൽറ്റ എപ്സിലോൺ നിർവചനം എടുക്കാം z f x y എന്ന ഫംഗ്ഷൻ ഒരു ഘട്ടത്തിൽ x0 y0 കണ്ടിന്യൂവസായി പറയപ്പെടുന്നു തന്നിരിക്കുന്ന എപ്സിലോണിന് ഒരു രേഖീയ സംഖ്യ ഡെൽറ്റ പോസിറ്റീവ് ഉണ്ടെങ്കിൽ x0 y0 പോയിന്റിലെ ഡെൽറ്റ നെയ്ബർഹുഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ x y എന്നിവ ഉണ്ടാകുമ്പോഴെല്ലാം f x y ഉം fx0 y0 മൂല്യവും തമ്മിലുള്ള വ്യത്യാസം എപ്സിലോണിനേക്കാൾ ചെറുതാണ് ഇത് ഡെഫിനിഷനാണ് ഇത് ലിമിറ്റിന്റെ നിർവചനവും ഇവിടെ ഈ ഫംഗ്ഷന് ഒരു ലിമിറ്റ് l ഉണ്ടെന്ന് നമ്മൾ കണ്ടു fx0y0 എന്നതിനുപകരം നമ്മൾ അവിടെ 1 ഉപയോഗിച്ചു ഇപ്പോൾ x0 y0 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ നിർവചിക്കേണ്ടതുണ്ട് കൂടാതെ xy 0 ലേക്ക് പോകുമ്പോൾ fxy ന്റെ ലിമിറ്റ് fx0 y0 ആണോ അല്ലയോ എന്ന് നോക്കേണ്ടതുണ്ട് ഈ എപ്സിലോൺ ഡെൽറ്റ നിർവചനം മുമ്പത്തേതിന് സമാനമാണ് വാസ്തവത്തിൽ ഇത് x0 y0 പോയിന്റ് ഒഴിവാക്കാൻ ഇത് 0 നേക്കാൾ വലുതായിരിക്കണം എന്ന് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടില്ല കാരണം ഇപ്പോൾ ഫംഗ്ഷൻ x0y0 പോയിന്റിൽ നിർവചിച്ചിരിക്കുന്നു നേരത്തെ ലിമിറ്റ് ഫംഗ്ഷന്റെ കാര്യത്തിൽ ആ ഘട്ടത്തിൽ നിർവചിക്കപ്പെട്ടിരിക്കില്ല ഇപ്പോഴും നമുക്ക് ലിമിറ്റിനെക്കുറിച്ച് സംസാരിക്കാം എന്നാൽ ഇപ്പോൾ ഈ കേസിൽ കണ്ടിന്യൂയിറ്റിയ്ക്കായി x0 y0 ൽ ഫംഗ്ഷൻ നിർവചിക്കേണ്ടതുണ്ട് ഈ അറ്റത്തുള്ള ഈ അസമത്വം ഇനി ആവശ്യമില്ല റിമൂവബിൾ ഡിസ്കണ്ടിന്യൂയിറ്റിക്കായി നമ്മൾ ഉപയോഗിച്ച മറ്റൊരു പദമുണ്ട് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത എല്ലാ വ്യവസ്ഥകളും പിന്നെ ഫങ്ക്ഷന് x0y0 ൽ നിർവചനം ഉണ്ട് എന്ന വ്യവസ്ഥയും ശരിയാണ് എങ്കിൽ ലിമിറ്റ് x y → x0 y0 fxy നിലവിലുണ്ട് മൂന്നാമത്തേത് ലിമിറ്റ് x0y0 ലെ ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമാകാത്തപ്പോൾ ഫംഗ്ഷന് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂയിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നു ഇത് തുല്യമാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത കണ്ടിന്യൂയിറ്റിയുടെ നിർവചനമാണിത് നമുക്ക് ഇപ്പോൾ ചില ഉദാഹരണങ്ങളിലേക്ക് പോകാം ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യാം

ഈ ഫംഗ്ഷന്റെ ഒറിജിനിലെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഈ ഫംഗ്ഷന്റെ ഈ ലിമിറ്റ് 0 ന് തുല്യമാണെന്ന് അടിസ്ഥാനപരമായി പരിശോധിക്കേണ്ടതുണ്ട് ഈ ലിമിറ്റ് 0 ന് തുല്യമാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസായിരിക്കുക അല്ലാത്തപക്ഷം ഈ ലിമിറ്റ് നിലവിലില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് 0 ന് തുല്യമല്ലെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസല്ലെന്ന് നമ്മൾ വിളിക്കുന്നു അവസാന പ്രഭാഷണത്തിൽ ചർച്ച ചെയ്തതുപോലെ പോളാർ കോർഡിനേറ്റിലേക്കുള്ള ഈ മാറ്റം ലിമിറ്റ് കണ്ടെത്തുന്നതിന് വളരെ സഹായകരമാണ് ഈ സാഹചര്യത്തിലും നമ്മൾ ആ ഘട്ടങ്ങൾ പിന്തുടരും നമ്മൾ ഇപ്പോൾ കാർട്ടീഷ്യനിൽ നിന്ന് പോളാർ കോർഡിനേറ്റിലേക്ക് മാറും കാരണം പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നതിനേക്കാൾ പദം ഡിനോമിനേറ്ററിൽ കാണുമ്പോഴെല്ലാം ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കോർഡിനേറ്റുകളെ x y ൽ നിന്ന് r θ യിലേക്ക് മാറ്റുമ്പോൾ x അടിസ്ഥാനപരമായി നമ്മൾ ഇവിടെ പകരക്കാരനാകും x r അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഇവിടെ എത്തി

ഇപ്പോൾ ഈ r സ്ക്വയറിനൊപ്പം ഇത് റദ്ദാക്കപ്പെടും ഇവിടെയും നമുക്ക് 2 ലഭിക്കും ഇപ്പോൾ നമുക്ക് പൊതുവായി r2 ഉണ്ട് നമുക്ക് ഇവിടെ cos4θ sin4θ 2 ഉണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇത് r → 0 എന്ന ലിമിറ്റായിത്തീരും തുടർന്ന് ഇവിടെ r2 തുടർന്ന് cos4 ഇത് ഒരു ബൌണ്ടഡ് ഫംഗ്ഷൻ ആയതിനാൽ r → 0 ആയിരിക്കുമ്പോൾ ഈ ലിമിറ്റ് 0 ആയിരിക്കും 00 ലെ ഫംഗ്ഷൻ മൂല്യവും 0 ആണ് ഫംഗ്ഷൻ കണ്ടിന്യൂവസായിരിക്കും ഫംഗ്ഷൻ കണ്ടിന്യൂവസാണ് ഇപ്പോൾ അടുത്ത ഉദാഹരണത്തിലേക്ക് കൂടുതൽ നീങ്ങുമ്പോൾ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും

ഈ സാഹചര്യത്തിൽ നമ്മൾ y mx പാത്ത് തിരഞ്ഞെടുക്കും കാരണം ഇവിടെ ഈ തിരഞ്ഞെടുക്കൽ പാത വീണ്ടും നിർണ്ണായകമാണ് കാരണം ഇവിടെ ഓർഡർ 2 ഉം y ൽ 2 ഉം ആണ് y mx x തിരഞ്ഞെടുക്കുന്നു റദ്ദാക്കുക ഈ ലിമിറ്റ് m നെ ആശ്രയിച്ചിരിക്കും മിക്ക കേസുകളിലും ഇത് പ്രവർത്തിക്കും ഇവിടെ y എന്നതിന് പകരമായി mx ന് തുല്യമാകുമ്പോൾ നമുക്ക് ഈ ലിമിറ്റ് ലഭിക്കും x y 00 x y എന്നിവ mx ആയി x2m ഉം m2x2 കൊണ്ട് വിഭജിക്കപ്പെടുന്നു അവിടെ നിന്ന് നമ്മൾ സാധാരണ x എടുക്കുന്നു ഈ x നീക്കംചെയ്യപ്പെടും ഇത് നമുക്ക് ലഭിക്കും x ൽ നിന്ന് മുക്തമാണ് x → 0 ആയ ഈ ലിമിറ്റ് ആണ് ഈ ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു കാരണം m ന്റെ വ്യത്യസ്ത മൂല്യം തിരഞ്ഞെടുക്കുന്നതിലൂടെ നമുക്ക് ഈ ലിമിറ്റിന്റെ മറ്റൊരു മൂല്യം ലഭിക്കും ഈ ലിമിറ്റ് നിലവിലില്ല തുടർന്ന് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂവസല്ലെന്ന് പറയാം അടുത്ത ഉദാഹരണം ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും 00 ൽ ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും കാരണം x y ≠ 00 ആയിരിക്കുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂവസാണെന്ന് എളുപ്പത്തിൽ കാണിക്കാൻ കഴിയും ഈ ഘട്ടത്തിൽ വീണ്ടും x സ്ക്വയർ y സ്ക്വയർ ടേം ഉള്ളതിനാൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നത് സഹായകരമാകും നമ്മൾ അങ്ങനെ ചെയ്യും ലിമിറ്റ് x y → 00 sin ഈ ഫംഗ്ഷൻ ലിമിറ്റായി മാറ്റും ഇവിടെ ആ പരിവർത്തനത്താൽ r2 ആയിരിക്കും എന്നിവയ്ക്ക് തുല്യമാണ് ഈ സബ്സ്റ്റിട്യൂഷൻ കൊണ്ട് നമുക്ക് ഇവിടെ r2 ലഭിക്കും തുടർന്ന് ഇത് നമ്മൾക്ക് ഇപ്പോൾ ഒരു വേരിയബിൾ ലിമിറ്റ് മാത്രമേയുള്ളൂ ഇത് ഉദാഹരണമായി ഉപയോഗിക്കുന്നു എൽ ഹോപ്പിറ്റലിന്റെ നിയമം നമുക്ക് sin r ന്റെ ഡെറിവേറ്റീവ് നേടാനാകും അത് cos r ഈ ഡെറിവേറ്റീവ് 1 ഉം ഇത് 1 ആയിരിക്കും ഇവിടെ ഈ ലിമിറ്റ് 1 ഉം 00 പോയിന്റിൽ നിർവചിച്ചിരിക്കുന്ന ഫംഗ്ഷൻ മൂല്യം 0 ഉം നൽകിയിരിക്കുന്നു ഈ കേസിൽ ലിമിറ്റ് നിലവിലുണ്ട് പക്ഷേ 00 ൽ ഫംഗ്ഷൻ കണ്ടിന്യൂവസല്ല കാരണം ഈ പരിമിത മൂല്യം 00 ൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഫംഗ്ഷൻ മൂല്യത്തിന് തുല്യമല്ല ഡിസ്കണ്ടിന്യൂയിറ്റി നീക്കം ചെയ്യാവുന്ന കാര്യമാണിത് ലിമിറ്റ് നിലവിലുണ്ട് ഫംഗ്ഷൻ നിർവചിക്കപ്പെടുന്നു എന്നാൽ ഈ പരിമിതപ്പെടുത്തൽ മൂല്യം ആ ഘട്ടത്തിലെ ഫംഗ്ഷന്റെ മൂല്യത്തിന് തുല്യമല്ല റിമൂവബിൾ ഡിസ്കണ്ടിന്യൂയിറ്റിക്ക് ഉദാഹരണമാണിത് മറ്റൊരു ഉദാഹരണം ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും

ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ y2 mx എന്ന പ്രത്യേക പാത തിരഞ്ഞെടുക്കും കാരണം y mx സഹായകരമാകില്ല നമ്മൾക്ക് ഇവിടെ മറ്റൊരു ഓർഡർ ഉണ്ട് ഇപ്പോൾ ഈ y4 കാരണം ഈ y2 mx തിരഞ്ഞെടുക്കുന്നു y4 ആണെങ്കിൽ m2x2 ആണെങ്കിൽ നമുക്ക് ഈ x2 പൊതുവായേക്കാം നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഈ y2 അവിടെ മാറ്റിസ്ഥാപിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ലിമിറ്റ് x → 0 എന്നതിനാൽ ഈ പാത ഒറിജിനിലേക്ക് മാത്രമേ എടുക്കൂ ഇപ്പോൾ നമ്മൾ ലിമിറ്റ് x 0 എടുക്കും നമ്മൾക്ക് അവരുടെ x4 തുടർന്ന് y2 ഉണ്ട് ഇത് x2 x2 എന്നിവയായി മാറും m2x2 എന്നിട്ട് ഇവിടെ വിഭജിക്കുക ഇത് m2x2 ഉം പവർ 3 ഉം ആണ് ഈ x6 ഇവിടെ നിന്നും x2 ഉം പിന്നീട് പവർ 3 ഉം x6 റദ്ദാക്കപ്പെടും തുടർന്ന് നമുക്ക് ഈ ലിമിറ്റ് m2 ലഭിക്കും ഓവർ അത് ഇവിടെ നൽകിയിരിക്കുന്നു ഇത് m2 ആണ് ഈ പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലിമിറ്റ് വീണ്ടും പാതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് വീണ്ടും കാണാം m ന്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി നിങ്ങൾക്ക് ഈ ലിമിറ്റിന്റെ മറ്റൊരു മൂല്യം ലഭിക്കും ഈ ലിമിറ്റ് നിലവിലില്ല ഈ ഫംഗ്ഷൻ കണ്ടിന്യൂവസായിരിക്കില്ല ഇപ്പോൾ അടുത്ത പ്രശ്നത്തിന്റെ നീങ്ങുന്നു ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ലിമിറ്റിങ് വാല്യൂ എന്തായിരിക്കുമെന്ന് കാണാൻ പ്രയാസമാണ് അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിട്യൂഷൻ എടുക്കും എന്നതിനനുസരിച്ചു ലിമിറ്റ് ഉണ്ടാകും നമുക്ക് വീണ്ടും ഈ y mx തിരഞ്ഞെടുത്ത് ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ഇത് x y → 00 ഉണ്ടെങ്കിൽ ഈ ഉണ്ടെങ്കിൽ ഈ ലിമിറ്റ് നമ്മൾ ഈ y mx ന് പകരമായി നൽകിയാൽ എന്ന ലിമിറ്റ് എടുക്കും ഇവിടെ നമുക്ക് തുടർന്ന് ഈ ഉണ്ടാകും y എന്നത് mx ആണ് x2 ഇപ്പോൾ x → 0 ആയിരിക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലെ 0 ലഭിക്കുന്നു കൂടാതെ ഡിനോമിനേറ്ററിൽ tan 0 ഉം ലഭിക്കുന്നു 0 ബൈ 0 കേസ് ഇത് ഒരു വേരിയബിൾ ലിമിറ്റാണ് നമുക്ക് എൽ ഹോസ്പിറ്റൽ ഉപയോഗിക്കാം ഈ ലിമിറ്റ് എന്നതിന് തുല്യമായ ലിമിറ്റ് നമുക്ക് ലഭിക്കും തുടർന്ന് ഇവിടെ നമുക്ക് ലഭിക്കും തുടർന്ന് ഇത് 2mx ആണ് ഈ 2x 2x ഉം ഇവിടെ നിന്ന് 2x ഉം റദ്ദാക്കുകയും x → 0 ആയിരിക്കുകയും ചെയ്യും ഇത് ഇവിടെ 1 ആണ് ഇത് 1 ആണ് ഈ സാഹചര്യത്തിൽ ഇത് m2 ആയി നമുക്ക് ഉണ്ട് വീണ്ടും ഈ ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു ഇത് നമ്മൾ അവിടെ വിലയിരുത്തിയ ആണ് ലിമിറ്റ് പാതയെ ആശ്രയിച്ചിരിക്കുന്നു ലിമിറ്റ് നിലവിലില്ല ഈ സാഹചര്യത്തിൽ ഫംഗ്ഷൻ വീണ്ടും കണ്ടിന്യൂവസല്ല കണ്ടിന്യൂയിറ്റി അല്ലെങ്കിൽ ലിമിറ്റ് കണ്ടെത്തുന്നതിന് വളരെ ഉപയോഗപ്രദമായ ചില പരാമർശങ്ങൾ x r cosθ y r sinθ എന്നിവയ്ക്ക് പകരമായി പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നു R → 0 വളരെ ഉപയോഗപ്രദമായതിനാൽ ലിമിറ്റ് കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു പല ഉദാഹരണങ്ങളിലും നാം കണ്ടതുപോലെ ലളിതമായ ഉദാഹരണം എടുത്താൽ വീണ്ടും നമുക്ക് പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാൻ കഴിയും നമ്മളുടെ ലിമിറ്റ് r → 0 ആയിരിക്കും ഇവിടെ നമുക്ക് ഈ r ഉപയോഗിച്ച് ഇവിടെ ഈ r2 റദ്ദാക്കപ്പെടും നിങ്ങൾക്ക് r ഉണ്ടായിരിക്കുകയും r → 0 പരിമിതപ്പെടുത്തുകയും ചെയ്യും ഈ ഒരു ബൌണ്ടഡ് ഫംഗ്ഷനാണ് ഇവിടെ r → 0 ആയിരിക്കുമ്പോൾ ഈ ലിമിറ്റ് 0 ആയിരിക്കും ലിമിറ്റ് 0 ആണ് മറ്റൊരു ഉദാഹരണത്തിൽ പോളാർ കോർഡിനേറ്റിലേക്ക് ഇത് മാറുന്നത് നാം കണ്ടത് ലിമിറ്റ് നിലവിലില്ലെന്ന് നിർണ്ണയിക്കുന്നതിനും ഉപയോഗപ്രദമാണ് ലിമിറ്റ് നിലനിൽക്കുമ്പോൾ ഇതാണ് സ്ഥിതി ഇപ്പോൾ ഇത് വീണ്ടും x r cosθ y r sinθ എന്നിവ മാറ്റിസ്ഥാപിക്കുമ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ r2 ഉം ഇവിടെ ഉം ലഭിക്കും ഈ r2 ഉപയോഗിച്ച് ഈ r2 റദ്ദാക്കപ്പെടും ഈ സാഹചര്യത്തിൽ r ഒന്നും അവശേഷിക്കുന്നില്ല ഇത് sin ആണ് ഈ ലിമിറ്റ് ആണ് ഇത് നെ ആശ്രയിച്ചിരിക്കുന്നു ലിമിറ്റ് നെ ആശ്രയിച്ചിരിക്കുമ്പോൾ അതിനർത്ഥം ലിമിറ്റ് നിലവിലില്ല ഇവിടെ തീറ്റയുടെ വ്യത്യസ്ത മൂല്യങ്ങൾക്കായി വ്യത്യസ്ത റിയൽ നമ്പർ ലഭിക്കുന്നു ഈ ലിമിറ്റ് യൂണിക് അല്ല ഇത് നിലവിലില്ല പോളാർ കോർഡിനേറ്റിലേക്ക് ഇത് തിരഞ്ഞെടുക്കുന്നത് ലിമിറ്റ് നിർണ്ണയിക്കുന്നതിനും ലിമിറ്റ് നിലവിലില്ലെന്ന് നിർണ്ണയിക്കുന്നതിനും വളരെ ഉപയോഗപ്രദമാണ് എന്നതിന് മറ്റ് ഉദാഹരണങ്ങളും നമ്മൾ കണ്ടു ഈ പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നത് എല്ലായ്പ്പോഴും സഹായിക്കില്ലെന്ന് നിങ്ങൾക്കറിയാം പരിവർത്തനം തെറ്റായ നിഗമനത്തിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചേക്കാം ഈ സാഹചര്യത്തിൽ ചില ഉദാഹരണങ്ങൾ നമ്മൾ കാണും നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് ഉദാഹരണമാണ് നമ്മൾ x r cosθ y r sinθ എന്നതിന് പകരമായി നൽകിയാൽ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും കാരണം ഒരു r2 ഇവിടെ നിന്ന് r ഇവിടെ നിന്ന് നമുക്ക് r3 ലഭിക്കും തുടർന്ന് ഇവിടെ sin യും വീണ്ടും ഇവിടെ and ഉം ലഭിക്കും ഈ സാഹചര്യത്തിൽ ഈ r2 നമുക്ക് റദ്ദാക്കാം ലഭിക്കും കൂടാതെ ഡിനോമിനേറ്ററിൽ നമുക്ക് ലഭിക്കും ഇപ്പോൾ ആരെങ്കിലും നേരിട്ട് ലിമിറ്റ് ഇവിടെ നിർത്താൻ ശ്രമിച്ചാൽ r 0 എന്ന് ചിന്തിക്കുക ഈ പദം 0 ആയി മാറുന്നു നമുക്ക് എന്നിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ ഇത് 0 ആയി മാറുന്നു പക്ഷെ അത് തെറ്റായ നിഗമനമാണ് നാം മൂല്യം നിശ്ചയിക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് 0 ആണ് കാരണം 0 ഉം ഉൾപ്പെടെ ഏത് ആയിരിക്കുമ്പോൾ ഇത് 0 ആയിത്തീരും തുടർന്ന് എല്ലാം ഇത് 0 ആയിത്തീരുക ആ സാഹചര്യത്തിലും ലിമിറ്റ് 0 ആയിരിക്കും മറ്റേതെങ്കിലും തീറ്റ എടുക്കുകയാണെങ്കിൽ r 0 ആയിരിക്കും ഇത് 0 ആണെന്ന് നമുക്ക് നിഗമനം ചെയ്യാം അതിൽ സംശയമില്ല എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത് 0 ആണ് എന്നാൽ ലിമിറ്റ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പരിഹരിക്കരുതെന്ന് ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ട് ഇതാണ് ലിമിറ്റ് എന്ന് നിഗമനം തീറ്റ പരിഹരിക്കുക എന്നതിനർത്ഥം പാത്ത് ശരിയാക്കുക എന്നാണ് ചില പ്രത്യേക പാതയിൽ ഈ ലിമിറ്റ് 0 ആണ് ഇവിടെ നമ്മൾ തീറ്റ ശരിയാക്കുമ്പോൾ നേർരേഖയുടെ കാര്യത്തിൽ ഇത് നേർരേഖ പോലെയാണ് നമ്മൾ അടിസ്ഥാനപരമായി സമീപിക്കുകയാണ് ഇത് നമ്മളുടെ r θ തലം ആണെങ്കിൽ ഇവിടെ ഒറിജിനിലേക്ക് അടുക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായി നേർരേഖയിലൂടെ ഒറിജിനിലേക്ക് അടുക്കുന്നു വീണ്ടും ഈ ഫിക്സിംഗ് ലിമിറ്റ് 0 ആണെന്ന് നിഗമനം ചെയ്യില്ല ഉദാഹരണത്തിന് y x2 മറ്റൊരു പാതയിലൂടെ പോകുകയാണെങ്കിൽ ഇത് വീണ്ടും ഒറിജിനിലേക്ക് 0 ലേക്ക് പോകുന്നു ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഈ പ്രത്യേക പാത y x2 അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റിൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് r → 0 ആയി മാറും ഇവിടെ എന്നിട്ട് ഈ r sinθ വീണ്ടും നമ്മൾ ഉപയോഗിച്ചു ഇവിടെ അതേ കാര്യം ഈ r sinθ നെ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെയെത്തുന്നത് ഇത് ഒരു ഉം വീണ്ടും ഉം ആണ് നമ്മൾ ഇവിടെ നേടുന്നു ഇവിടെ നമുക്ക് ലഭിക്കുന്നു ഇത് റദ്ദാക്കപ്പെടും നമ്മൾക്ക് ഈ ലിമിറ്റ് പകുതി ലഭിക്കും നമുക്ക് ആവശ്യമുള്ള ലിമിറ്റ് x → 0 തുടർന്ന് x2 എന്നിങ്ങനെ ലഭിക്കും y x2 തുടർന്ന് നമുക്ക് x4 y2 വീണ്ടും ഇവിടെ x4 ഉണ്ട് വീണ്ടും ഈ x4 ഉം x → 0 ഉം നമ്മൾക്ക് ഈ ഉണ്ട് x4 റദ്ദാക്കുക തുടർന്ന് നമ്മൾക്ക് ഈ ലിമിറ്റ് പകുതി ലഭിക്കും ഈ കേസിലെ ലിമിറ്റ് ഇതാണ് ഈ പ്രത്യേക പാതയിലൂടെ ഇത് സൂക്ഷ്മമായി നോക്കാതെ ഈ ലിമിറ്റ് ഇവിടെ r 0 ആയി എടുത്ത് ഇത് തെറ്റായി ചെയ്യാമായിരുന്നു തുടർന്ന് ഈ ലിമിറ്റ് 0 ആണ് എന്നാൽ ഇത് അങ്ങനെയല്ല ഇത് യഥാർത്ഥത്തിൽ 0 ആണെന്ന് നമ്മൾ കണ്ടതുപോലെ ഈ പാതയിലൂടെ ലിമിറ്റ് ഇവിടെ പകുതിയാണ് ഈ കേസിൽ ലിമിറ്റ് നിലവിലില്ല ന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യും ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ പോളാർ കോർഡിനേറ്റിലേക്ക് കോർഡിനേറ്റ് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും ഇത് ഇവിടെ നിന്ന് r3 വരും നമുക്ക് ന്യൂമറേറ്ററിൽ ഒരു r ഉണ്ട് തുടർന്ന് ഉം ഉം r → 0 ആയിരിക്കുമ്പോൾ എന്തോ ഇവിടെയുണ്ട് എന്ന തെറ്റ് നമ്മൾ ചെയ്യരുത് ഇത് 0 ആയി മാറുന്നു ഈ ഫംഗ്ഷൻ ഇവിടെ ഇരിക്കുന്ന തീറ്റയുടെ ഒരു ബൌണ്ടഡ് ഫംഗ്ഷനാണോയെന്ന് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഈ ലിമിറ്റ് r 0 ലേക്ക് പോകുന്നു ഇത് 0 ആയിരിക്കും എന്നാൽ ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ ഫംഗ്ഷൻ ഉദാഹരണത്തിന് ഇത് ലിമിറ്റ് അല്ലാത്തതാകാം കാരണം ഇത് 0 ന് വളരെ അടുത്തായിരിക്കാം ഇത് യഥാർത്ഥത്തിൽ അതിരുകളില്ലാത്ത ഫംഗ്ഷന്റെമാണ് ഇത് ഒരു ബൌണ്ടഡ് ഫംഗ്ഷൻ അല്ല r → 0 എന്ന ഈ ലിമിറ്റ് 0 ആണെന്ന വസ്തുത നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല നമ്മൾ ശരിയാക്കിയാൽ മുമ്പത്തെ ഉദാഹരണത്തിലെന്നപോലെ ഈ ലിമിറ്റ് 0 ആണ് ലിമിറ്റ് 0 ആണെന്ന് നമ്മൾക്ക് നിഗമനം ചെയ്യാൻ കഴിയില്ല അടുത്ത സ്ലൈഡിൽ ഇപ്പോൾ ആ ലിമിറ്റ് വീണ്ടും കാണും ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റി നോക്കിയാൽ ഈ പാതയിലൂടെ y mx ഇത് സമാനമാണ് നിങ്ങൾക്ക് ഈ ലിമിറ്റ് 0 ആയി ലഭിക്കും നമ്മൾ ഒരു y mx എടുക്കുന്നു അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുകയും പരിഹരിക്കുകയും ചെയ്യുന്നു ഇവിടെ ഈ ലിമിറ്റ് ഈ പാതയിലൂടെ 0 ആണ് എന്നാൽ നമ്മൾ ഈ പ്രത്യേക പാത എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ x2 ഉം y2 ന് ഉം x3 ഉം നേടുന്നു ഈ y3 ആയിരിക്കും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ x3 റദ്ദാക്കപ്പെടും നമുക്ക് എന്ന ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുണ്ട് ഇവിടെ ലിമിറ്റ് എന്താണ് x→0 ഇത് 0 ബൈ 0 കേസാണ് നമ്മൾക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം ഈ ലിമിറ്റ് ഇതിന് തുല്യമായിരിക്കും തുടർന്ന് 2 ഇത് അവിടെ ഒരു വ്യത്യാസമാണ് തുടർന്ന് 3e3x x → 0 ഇത് 0 ലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് 13 ഉണ്ട് ഈ പ്രത്യേക പാതയിലൂടെയുള്ള ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് 13 ആണ് ഈ പാത 0 ലേക്ക് പോകുന്നു ഇത് വളരെ സാധാരണമായ ഒരു ഉദാഹരണമാണെന്ന് കാണിക്കാൻ നമ്മൾ വളരെ പ്രത്യേകമായ ഒരു പാത സ്വീകരിച്ചു ഈ പാതയിലൂടെ നമുക്ക് മറ്റൊരു ലിമിറ്റ് ലഭിക്കുമെന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ ലിമിറ്റ് നിലവിലില്ലെന്നും 00 ഫംഗ്ഷൻ തുടരില്ലെന്നും ഇത് തെളിയിക്കുന്നു അവസാനത്തെ ഉദാഹരണം ഈ ഫംഗ്ഷന്റെ കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യും നമ്മൾ വീണ്ടും പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നു ഇത് ലളിതമാക്കുകയും നമുക്ക് x y → 00 പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നത് പോലെയാകും ഈ പദം കാരണം ഇവിടെ r4 ഉം ഉം ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇവിടെ നമുക്ക് ഇവിടെ ഒരു ചതുരപദത്തെ 4 ആക്കാം വരും തുടർന്ന് മൈനസ് നമുക്ക് കുറയ്ക്കാം ഈ പദം ഈ പദത്തിന് തുല്യമാണ് കാരണം ഈ സ്ക്വയർ തുറക്കുമ്പോൾ നമുക്ക് യും 2 മടങ്ങ് പ്രോഡക്റ്റും ഇത് റദ്ദാക്കപ്പെടും നമുക്ക് ഈ പദം ലഭിക്കും ആ sin2θ യും cos2θ യും ഇവിടെ 1 ആയി തുടർന്ന് നമുക്ക് ഈ പദം 1 മൈനസ് ഉണ്ട് നമുക്ക് വീണ്ടും ഇവിടെ എന്ന് എഴുതാം നമ്മൾ ഇത് 4 ആക്കണം നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് വിഭജിക്കുന്നു നമുക്ക് ഇപ്പോൾ ഈ പദം ഉണ്ട് ഈ ഫംഗ്ഷന്റെ ഈ ലിമിറ്റ് എന്താണ് എന്ന് കാണേണ്ടതുണ്ട് എന്താണ് ലിമിറ്റ് ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇവിടെ ഈ പദം 12 നും 1 നും ഇടയിലാണ് ഇത് 0 ആയിരിക്കുമ്പോൾ 1 പോലെയാണ് തുടർന്ന് ഈ 12 1 ആണ് ഇത് 12 ആയി മാറും ഇത് 12 മുതൽ 1 വരെ ആയിരിക്കും ഈ സാഹചര്യത്തിൽ ഈ പദം അവിടെ കണക്കാക്കാം 1 മൈനസ് ഇത് ഇതൊരു പോസിറ്റീവ് പദമാണ് ഇവിടെയും ഇത് പകുതിയിൽ കൂടുതലാണ് തീർച്ചയായും ഇത് 0 നേക്കാൾ വലുതാണ് ഇപ്പോൾ ഇത് എല്ലായ്പ്പോഴും പകുതിയേക്കാൾ വലുതാണെന്ന് നമുക്കറിയാം നമുക്ക് ഈ പകുതിയെ മാറ്റിസ്ഥാപിക്കാനും ഈ പദത്തിന് മുകളിലുള്ള ലിമിറ്റ് നേടാനും കഴിയും ഇത് പകുതിയായി മാറ്റിസ്ഥാപിച്ചാൽ നമുക്ക് ലഭിക്കും ഈ സമയം ഇവിടെ 0 നും ഈ പദത്തിനും ഇടയിലാണ് ഇപ്പോൾ ഇതിനായി നമുക്ക് r 0 എന്നതിന്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കാം ഇത് ഇവിടെ മറ്റൊരു വേരിയബിൾ t ഉപയോഗിച്ചു അത് പോകുന്നു കാരണം 1 r നമ്മൾ t എന്ന് മാറ്റിസ്ഥാപിക്കുന്നു r→ 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഉണ്ട് തുടർന്ന് ഈ t4 ആയി മാറും ഇത് ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഇത് 2t4 ഉം ഉം ആണ് ∞ ∞ കേസ് തുടർന്ന് നമുക്ക് ഈ ലിമിറ്റ് 0 ആയി ലഭിക്കുന്നതിന് എൽ ഹോസ്പിറ്റൽ റൂൾ ഉപയോഗിക്കാം ഈ ലിമിറ്റ് 0 ആയതിനാൽ ഇവിടെ നിന്ന് നമുക്ക് ലിമിറ്റ് r → 0 ആയി ലഭിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് 0 നും ഇവിടെ എന്തെങ്കിലുമാണ് അത് വീണ്ടും 0 ലേക്ക് r → 0 ആയി പോകുന്നു ഈ സ്ക്വിസ് സിദ്ധാന്തം അല്ലെങ്കിൽ സാൻഡ്വിച്ച് സിദ്ധാന്തം വഴി നമുക്ക് ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാം കാരണം ഇത് 0 ആണ് ഇവിടെയും ഇത് 0 ലേക്ക് പോകുന്നു ഈ ലിമിറ്റ് 0 ആയിരിക്കണം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംഗ്രഹിക്കാം കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു f x y ഇവിടെ ലിമിറ്റിങ് വാല്യൂവിന് തുല്യമാണ് ആ ഫംഗ്ഷന്റെ മൂല്യത്തിന് തുല്യമാണ് തുടർന്ന് ഫംഗ്ഷൻ കണ്ടിന്യൂവസാണെന്ന് നമ്മൾ വിളിക്കുന്നു സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ ഫംഗ്ഷൻ നിർവചിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നമുക്ക് കണ്ടിന്യൂയിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയൂ പോളാർ കോർഡിനേറ്റിലേക്ക് മാറുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇത് പല കേസുകളിലും തെറ്റായ ലിമിറ്റ്കളിലേക്ക് വഴിതെറ്റിച്ചേക്കാം ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണ് ഇവ വളരെ നന്ദി